അപ്പോൾ ആദ്യത്തെ ലക്ച്ചറിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി സ്വഭാവത്തിൻറെ കാഴ്ചപ്പാടിൽ നിന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൌതുകകരമായി തോന്നുന്ന ചില വിഷയങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് അതിനുമുമ്പ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന നേർരേഖയിലേക്ക് ഒന്ന് നോക്കുക ഇപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് ഒരാൾ വരച്ച ഒരു വളഞ്ഞ രേഖയാണെന്ന് ഒരുതരത്തിൽ നിങ്ങൾക്ക് ഊഹിക്കാം ഞാൻ ഇതിനെ കുറച്ചുകൂടി നീളത്തിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് രേഖ കുറച്ചുകൂടി തീവ്രമായി വലത്തേക്ക് തിരിഞ്ഞതായി തോന്നാം പിന്നെയും ഞാൻ ഇത് നീട്ടിവരയ്ക്കാൻ ശ്രമിക്കുന്നു ഇതെന്താണെന്ന് ഒരു വ്യക്തത ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നീട് ഞാൻ ഇതിലേക്ക് വേറെയും വരകൾ കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഏതു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ചിത്രം ഈ ദൃശ്യം മനസ്സിൽ രൂപപ്പെട്ട് കഴിയുമ്പോൾ ഒരു പേര് മാത്രമല്ല നിങ്ങൾ ഓർത്തെടുക്കുന്നത് അതിൻറെ കൂടെ തന്നെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൽ സ്വാതന്ത്ര്യം പോലെയുള്ള ചില പ്രത്യേക തരം പ്രാതിനിധ്യങ്ങളുമായി ബന്ധപ്പെട്ട മാനസിക ചിത്രങ്ങൾ ഉരുത്തിരിഞ്ഞു വരും ഇതുകൂടാതെ ചിലപ്പോൾ ഭാരതം എന്ന ഒരു രാഷ്ട്രീയ ഭൂപടംതന്നെയും കൂടാതെ ഗാന്ധിയൻ തത്വങ്ങൾ പോലെയുള്ള തത്വചിന്തകളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കാനാകും അപ്പോൾ തീർച്ചയായും നമ്മൾ യഥാർഥ ലോകം കാണുമ്പോൾ ബാഹ്യമായ ചുറ്റുപാടുകളിൽ നിന്നും ചില ഇൻപുട്ട്സ് എടുക്കുന്നു ചിലപ്പോൾ നമ്മുടെ ആന്തരികമായ സംവിധാനങ്ങളിൽ നിന്നും ഇൻപുട്ട്സ് എടുക്കാറുണ്ട് പിന്നീട് നമ്മൾ അതിന് അർത്ഥം നിർണയിക്കാൻ ശ്രമിക്കാറുണ്ട് മനഃശാസ്ത്രത്തിൽ ഇതിനെ നമ്മൾ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ എന്നു വിളിക്കുന്നു ഇപ്പോൾ വീണ്ടും വരകൾ വരച്ചുചേർത്തപ്പോഴും ഞാൻ ആദ്യം കണ്ട വരയുടെ സാരം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ലെന്നത് ഒരു വസ്തുതയാണ് എനിക്ക് വ്യക്തമായ സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ കാണുന്ന വര രാഷ്ട്രപിതാവിനെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് തിരിച്ചറിയാനായത് അർഥം വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒരു സൂചനയ്ക്ക് വേണ്ടി ഞാൻ തിരയുകയായിരുന്നു ഈ പ്രക്രിയയെ പെർസെപ്ഷൻ എന്ന് വിളിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിത്രം ഊഹിക്കാൻ വേണ്ടി കണ്ട രേഖ കാണുമ്പോഴും ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുകയും ചെയ്തു അവ നിങ്ങൾക്കുള്ളിൽ ഒരു പ്രത്യേക വികാരം ഉളവാക്കുകയുണ്ടായി അപ്പോൾ ആദ്യമായി നമ്മൾ തുടങ്ങുന്നത് പ്രോസസ്സ് ഓഫ് പെർസെപ്ഷൻ എന്നതിൽ നിന്നാണ് പിന്നീട് നമ്മൾ ലേണിങ്ലേക്ക് പോകുന്നു മെമ്മറിയിലേക്ക് പിന്നീട് വരികയും ഒടുവിൽ ഇമോഷണൽ പ്രോസസ് അഫക്ടീവ് പ്രോസസ് എന്നിവയെപറ്റി സംസാരിക്കുകയും ചെയ്യുന്നു പെർസെപ്ഷനിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാം തലച്ചോറ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിനുമുമ്പ് അത് എന്തെങ്കിലുമൊരു കാര്യത്തിന് അർത്ഥം കൽപ്പിക്കുന്നതിനുമുമ്പ് അതിനുവേണ്ടി തലച്ചോറിന് ഒരു ട്രിഗർ ആവശ്യമായി വരുന്നു പുറത്തുനിന്നുള്ള ഒരു സെൻസേഷൻ അതിന് ആവശ്യമായി വരുന്നു അപ്പോൾ തലച്ചോറിലേക്ക് വരുന്ന ഏതുതരം വിവരങ്ങളും അവ ബാഹ്യമായ ഉറവിടത്തിൽ നിന്നുള്ളവയാണെങ്കിലും അതല്ലാതെ ആന്തരികമായ ഉറവിടത്തിൽ നിന്നുള്ളവയാണെങ്കിലും അതിനെ സെൻസേഷൻ എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്നപോലെ നമ്മൾക്ക് ചില സെൻസറി ഓർഗൻസ് നൽകപ്പെട്ടിട്ടുണ്ട് ഈ സെൻസറി ഓർഗൻസ് അത് കണ്ണുകൾ കാതുകൾ സോമേസ്തെറ്റിക് സെൻസറുകൾ നാക്ക് ഈ സെൻസേർസ് എല്ലാം ചില പ്രത്യേക തരം സ്റ്റിമുലൈ തലച്ചോറിലേക്ക് അയക്കുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രതികരണങ്ങൾ ഉളവാക്കുന്ന ആന്തരികവും അല്ലെങ്കിൽ ബാഹ്യവുമായ സ്റ്റിമുലൈ പേർസെപ്ച്വൽ പ്രോസസ് തുടങ്ങുവാൻ വേണ്ടി എപ്പോഴും പ്രധാനമാണ് അപ്പോൾ നമ്മളുടെ തലച്ചോറ് ചുറ്റുപാടും നിന്ന് ലഭിച്ച സിഗ്നലുകൾ പ്രോസസ് ചെയ്യാൻ തുടങ്ങുകയും ഉടൻതന്നെ അത് അവയ്ക്ക് അർത്ഥം കൽപ്പിച്ചുകൊടുക്കുന്ന പ്രക്രിയ തുടങ്ങുകയും ചെയ്യുന്നു അപ്പോൾ സെൻസ് മോഡാലിറ്റീസിലൂടെ കടന്നുവന്ന സെൻസറി ഇൻപുട്ടിൻറെ വീക്ഷണ കോണിൽ നിന്നും ഏത് പേർസെപ്ച്വൽ പ്രോസസ് നമ്മൾ നോക്കുമ്പോഴും അവ ഒടുവിൽ സാധ്യമായൊരു അർത്ഥത്തിൽ എത്തിചേരാൻ ശ്രമിക്കുന്നു ഒടുവിലായി ഏറ്റവും ഉചിതമായി പ്രതിനിധാനം ചെയ്യുന്നത് ഏതെന്ന് തലച്ചോർ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് പെർസെപ്ഷൻ എന്ന് വിളിക്കുന്നത് ഈ കോഴ്സിൻറെ ഭാഗമായി നമ്മൾ ചെയ്യുന്നത് എന്തെന്നുവെച്ചാൽ ആദ്യമായി പ്രോസസ്സ് ഓഫ് സെൻസേഷൻ എന്നതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായ സെൻസറി ഓർഗൻസ്സിനെപ്പറ്റി നോക്കുകയാണ് കണ്ണുകൾ മൂക്ക് കാതുകൾ സോമേസ്തെറ്റിക് സെൻസറുകൾ കൈനസ്തെറ്റിക് സെൻസറുകൾ വെസ്റ്റിബുലാർ സെൻസറുകൾ ഓൾഫാക്ടറി മെക്കാനിസം തുടങ്ങിയവ പിന്നീട് എങ്ങനെയാണ് മസ്തിഷ്കത്തിന് വിവരങ്ങൾ ലഭിക്കുന്നതെന്നും അതുകൂടാതെ എങ്ങനെയാണ് യഥാർത്ഥ ലോകം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നതിനെപ്പറ്റിയും നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു ഇത് ചെയ്യുന്നതിനുവേണ്ടി ഞാൻ ഈയൊരു ഉദാഹരണം എടുക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ കാണാം തുടക്കത്തിൽ കുട്ടി പാർക്കിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടി പ്രധാനമായും താൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കളർ ഡിസ്കിൽ ഉന്നം വെക്കാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് കുട്ടി അവിടെ ഒരു കിളിയെ കാണുകയും അവൻ ആ കിളിയെ പിന്തുടരുകയും ചെയ്യുന്നു കാരണം കിളി ചിലയ്ക്കുന്ന ശബ്ദം അവനെ ആകർഷിക്കുന്നു അവന് വിശന്നപ്പോൾ പൊതിയഴിച്ച് അവനൊരു ചോക്ലേറ്റ് കഴിക്കുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർക്കിൻറെ ഒരു കോണിൽ പെട്ടെന്ന് അവൻ ഒരു റോസാപ്പൂവ് കാണുന്നു അവൻ പോയി അത് മണത്തു നോക്കുന്നു ഈ പ്രക്രിയകൾ ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ സ്റ്റിമുലൈയുടെ ഭൌതികമായ ഊർജ്ജം ഒരു ഇംപൾസായി മാറുകയും അവ തലച്ചോറിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു അങ്ങനെ തലച്ചോറിന് ഒടുവിൽ അതിൻറെ അർത്ഥം മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കുന്നു ഇതിനെയാണ് പ്രോസസ് ഓഫ് ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ തലച്ചോറിന് വിശകലനം ചെയ്യുവാൻ സാധിക്കുന്ന ഇംപൾസായി ഭൌതികമായ ഊർജ്ജം മാറുന്നതിനെയാണ് പ്രോസസ് ഓഫ് ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത് ഈ ട്രാൻസ്ഡക്ഷനെയാണ് പുറംലോകത്തെ ഗ്രഹിക്കുന്നതിനുള്ള ആദ്യപടിയായി നമ്മൾ കണക്കാക്കുന്നത് മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് അഞ്ച് പ്രധാന സെൻസ് ഓർഗൻസാണുള്ളത് അത് കാഴ്ച രുചി മണം സ്പർശം എന്നിവയാണ് സ്പർശനം കൂടാതെ നമ്മുടെ ത്വക്ക് ചൂടും തണുപ്പും വേദനയും പ്രഷറും മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങളും നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിക്കുക നമ്മുടെ കണ്ണുകൾക്ക് എന്താണ് വിശകലനം ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് വിഷ്വൽ സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം വിഷ്വൽ മെക്കാനിസം വ്യക്തമായി മനസ്സിലാക്കുന്നതിനുവേണ്ടി ഈ വീഡിയോ നമ്മൾക്ക് കാണാം ഇവിടെ വിവിധ വസ്തുക്കൾ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോമാഗ്നെറ്റിക് വ്യതിയാനങ്ങൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വിഷ്വൽ സ്പെക്ട്രം 380 മുതൽ 780 നാനോമീറ്റർസ് വരെ വ്യാപിച്ചു കിടക്കുന്നു നിറങ്ങളാണ് വിസിബിൾ സ്പെക്ട്രത്തിനെ പ്രതിനിധീകരിക്കുന്നത് ഇതൊരു നിറമുള്ള ഡിസ്ക് ആണ് ഈ കുട്ടി ഇതിനെ ഉന്നം വെക്കുകയാണ് നമ്മൾ ഈ വിഷ്വൽ മെക്കാനിസം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു അപ്പോൾ അവൻ എന്താണ് കണ്ടത് അത് മനസ്സിലാക്കുവാനായി അവൻറെ കണ്ണുകളിലേക്ക് നമ്മൾക്ക് നോക്കാം നിറമുള്ള ഡിസ്കിൽ നിന്നും വെളിച്ചം അവൻറെ കണ്ണുകളിലേക്ക് പ്യൂപ്പിൾ വഴി കടന്ന് കോർണിയ ലെൻസ് ഐബോളിൻറെ ഉൾവശം വഴി അത് ഇപ്പോൾ റെറ്റിനയിൽ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കണ്ണിൻറെ ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങളായ റോഡ് കോൺ എന്നിവയുടെ ഫോട്ടോ മൈക്രോഗ്രാഫ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുക്കൊണ്ടിരിക്കുന്നത് ഗാംഗ്ലിയോൺ സെല്ലുകളെയാണ് അതായത് എം ആൻഡ് പി സെൽസ് കൂടാതെ ബൈപോളർ ന്യൂറോൺസ് വെളിച്ചം ഗാംഗ്ലിയോൺ സെല്ലുകളുടെയും ബൈപോളർ ന്യൂറോൺസുകളുടെയും ഇടയിലൂടെ കടന്നുപോകുന്നു ബൈപോളർ ന്യൂറോൺസ് ഗാംഗ്ലിയോൺ സെല്ലുകളിലേക്ക് സിഗ്നൽ തിരിച്ച് അയക്കുന്നു അതിനുശേഷം ഒപ്റ്റിക് നെർവ് വിഷ്വൽ കോർട്ടക്സിലേക്ക് അവയെ കൊണ്ടുപോകുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വിഷ്വൽ കോർട്ടക്സ്സുകളാണ് അതാണ് ഇവിടെ വി 1 ആയി സൂചിപ്പിച്ചിരിക്കുന്ന വിഷ്വൽ ഏരിയ 1 കൂടാതെ മറ്റ് ഏരിയാസ് 2 3 4 5 6 7 കൂടാതെ 8 ഇവിടെ നിങ്ങൾ കാണുന്നത് ഒപ്ടിക് ഡിസ്ക് ഫോവിയ ബ്ലഡ് വെസ്സൽ എന്നിവയാണ് വിഷ്വൽ സെൻസേഷൻ ഈ കുട്ടിയിൽ ഇപ്പോൾ പൂർണമായിരിക്കുന്നു അവൻ നിറമുള്ള ഡിസ്കിനെയാണ് ഉന്നം വെച്ചിരുന്നത് എന്നാൽ അവൻറെ തലച്ചോർ എന്താണ് കണ്ടത് വരകളോടുകൂടിയ നിറമുള്ള ഡിസ്കിൻറെ എക്സ്റ്റൻഷൻ വഴി നിങ്ങൾ കാണുന്നത് യഥാക്രമം ഇടതും വലതും കണ്ണുകളുടെ വിഷ്വൽ ഫീൽഡാണ് ഐബോളുകളുടെ തൊട്ടടുത്തായി നിങ്ങൾ കാണുന്ന നിറമുള്ള ഡിസ്കിൻറെ ഭാഗം കാണിക്കുന്നത് ഇടതും വലതും വശത്തുള്ള കണ്ണുകളുടെ റെറ്റിനയിൽ യഥാക്രമം പതിയുന്ന പ്രൊജക്ഷൻസാണ് തെളിച്ചമുള്ള മഞ്ഞനിറം പ്രതിനിധീകരിക്കുന്നത് തലച്ചോറിൽ ഉടനീളമുള്ള സിഗ്നലുകളുടെ ചലനമാണ് രണ്ട് കണ്ണുകളിൽ നിന്നും ചില ഒപ്ടിക് നേർവുകൾ ഒപ്ടിക് കിയാസത്തിൽ വച്ച് തലച്ചോറിൻറെ മറുവശത്തേക്ക് കടന്നുപോകുന്നു ഒപ്ടിക് നേർവിലെ ന്യൂറൽ കണ്ടക്ഷൻ ലാറ്ററൽ ജെനിക്കുലേറ്റ് ന്യൂക്ലിയയിൽ ചെന്നെത്തുന്നു ഇടതുവശത്തും വലതുവശത്തും പടർന്നുകിടക്കുന്ന നിറങ്ങൾ കാണിക്കുന്നത് യഥാക്രമം ഇടതും വലതും വശത്തെ ലാറ്ററൽ ജെനിക്കുലേറ്റ് ന്യൂക്ലിയസിലേക്കുള്ള ഇൻപുട്ട്സാണ് ഒടുവിൽ ഈ ഇൻപുട്ട് വിഷ്വൽ കോർട്ടെക്സിൽ ചെന്നെത്തുന്നു ഒരിക്കൽകൂടി നിങ്ങൾ കോർട്ടെക്സിൻറെ ഭാഗത്തു കാണുന്ന നിറങ്ങൾ തലച്ചോറിൻറെ ഇടതും വലതും ഹെമിസ്പിയറുകളുടെ മധ്യഭാഗത്തായുള്ള പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്സിൽ എത്തിച്ചേർന്ന ഇൻപുട്ടിനെയാണ് പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണിത് അതായത് കുട്ടി നോക്കിക്കൊണ്ടിരുന്ന പൂർണ്ണ നിറമുള്ള ഡിസ്കിനെ രണ്ട് കണ്ണുകളും തലച്ചോറിൻറെ രണ്ട് ഹെമിസ്പിയറുകളും വ്യത്യസ്തമായ രീതിയിലാണ് ഗ്രഹിച്ചിരിക്കുന്നത് കൌതുകകരമായ കാര്യമെന്തെന്നാൽ ഈ വിവരങ്ങളുടെയെല്ലാം ഭാഗങ്ങൾ ഒടുവിൽ കൂടിച്ചേരുകയും നമ്മൾ അതിനെ നിറമുള്ള ഡിസ്ക്കായി കാണുകയും ചെയ്യുന്നു ഇവിടെ അടിസ്ഥാനപരമായും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമെന്തെന്നാൽ നമ്മുടെ കണ്ണുകളുടെ കോൺവെക്സ് ലെൻസുകൾ റെറ്റിനയിൽ തലതിരിഞ്ഞ ചിത്രമാണ് പതിപ്പിക്കുന്നത് കൂടാതെ അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുമുള്ള തെളിഞ്ഞ വെളിച്ചം കൂടുതൽ ഫോക്കസോടെ റെറ്റിനയിൽ വീഴുന്നതിനു വേണ്ടി ലെൻസുകളുടെ രൂപത്തിൽ മാറ്റങ്ങളുണ്ടാകും റെറ്റിനയിൽ കൂടുതൽ ഫോക്കസ് കൊണ്ടുവരുന്ന ഈ പ്രക്രിയയെ അക്കോമഡേഷൻ എന്നു വിളിക്കുന്നു അപ്പോൾ നമ്മൾ ട്രാൻസ്ഡക്ഷനെകുറിച്ച് സംസാരിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ അക്കോമഡേഷനെകുറിച്ചും പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ റെറ്റിനയെന്നാൽ നമ്മുടെ ഐബോളുകളുടെ പുറകിലായുള്ള നേർത്ത സചേതനമായ ഒരു പാളിയാണ് അതിന് റോഡ് സെല്ലുകൾ കോൺ സെല്ലുകൾ എന്നീ രണ്ട് തരം ഫോട്ടോ റിസപ്പ്റ്റേഴ്സ് ഉണ്ട് കൂടാതെ വളരെ കൌതുകകരമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്തെന്നാൽ സംഖ്യാപരമായി നോക്കുകയാണെങ്കിൽ നമ്മളുടെ റെറ്റിനയിൽ റോഡ് മുന്നിട്ടുനിൽക്കുന്നു പിന്നീട് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ പ്രധാനമായ കാര്യങ്ങൾ ഒപ്ടിക് നേർവുകളെ കുറിച്ചാണ് അവ റെറ്റിനയിൽ നിന്നും കാഴ്ച സംബന്ധിച്ച് വിവരങ്ങൾ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നു കണ്ണിൽ നിന്നും ഒപ്ടിക് നേർവ് പുറത്തേക്ക് പോവുന്ന സ്ഥലത്തെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നു കാരണം ഇതിന് ഫോട്ടോ റിസപ്പ്റ്റേഴ്സ് ഇല്ലെന്നതാണ് അപ്പോൾ റോഡ് കോൺ സെല്ലുകളിൽ ഫോട്ടോ സെൻസിറ്റീവ് പിഗ്മെൻറ്സ് അടങ്ങിയിരിക്കുന്നു വളരെ കൌതുകകരമായ കാര്യം ഇതിൽ ഉദാഹരണത്തിന് റോഡ് സെല്ലുകൾ ഉത്തേജിതമല്ലാത്ത അവസ്ഥയിൽ സിസ് റോഡോപ്സിൻ കോൺഫിഗറേഷനിൽ ആയിരിക്കും എന്നാൽ അതിൽ വെളിച്ചം വീഴുമ്പോൾ അത് ട്രാൻസ് റോഡോപ്സിൻ കോൺഫിഗറേഷനിലേക്ക് മാറുന്നു മെമ്മറിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ആശയത്തിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും ഇത് നമ്മൾ ഐകോണിക്ക് മെമ്മറിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആയിരിക്കും അവിടെ നമ്മൾ പറയുന്നത് ഈ സെൻസറി ഓർഗൻറെ തലത്തിൽ വച്ച് സമയത്തിൻറെ ഒരു പ്രത്യേക അളവിൽ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് കുറച്ച് വിവരങ്ങൾ സൂക്ഷിച്ചുവെക്കുന്നതിനെക്കുറിച്ചാണ് അന്നേരം നമ്മൾ ഐകോണിക്ക് മെമ്മറിയെക്കുറിച്ച് പരാമർശിക്കുന്നതായിരിക്കും എന്നാൽ ഇപ്പോൾ നമ്മൾ മെമ്മറിയിലേക്ക് കടക്കുന്നില്ല പക്ഷേ നിങ്ങളോട് ഈ വസ്തുത ഓർത്തിരിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ നമ്മൾക്ക് റോഡ് കോൺ സെല്ലുകളെ തമ്മിൽ താരതമ്യം ചെയ്യാം തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ റോഡ് സെല്ലുകളാണ് നമ്മുടെ റെറ്റിനയിൽ മുന്നിട്ടുനിൽക്കുന്നത് അപ്പോൾ ഏകദേശം 120 മില്യൻ റോഡ് സെല്ലുകളെ അപേക്ഷിച്ച് വെറും എട്ടു മില്യൺ കോൺ സെല്ലുകളാണ് നമ്മൾക്കുള്ളത് പ്രതികരണത്തിൻറെ അടിസ്ഥാനത്തിൽ റോഡ് സെല്ലുകൾ തീർച്ചയായും ഇരുണ്ട അവസ്ഥയിൽ വെളിച്ചം ക്രമീകരിക്കുന്നതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അതേസമയം കോൺ സെല്ലുകൾക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വമാണുള്ളത് അവ നിറങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുന്നവയാണ് വെളിച്ചത്തോടുള്ള സംവേദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ റോഡ് സെല്ലുകളാണ് തീർച്ചയായും കോൺ സെല്ലുകളെക്കാൾ കൂടുതൽ സചേതനമായത് നിങ്ങൾക്ക് ഇരുട്ട് അനുഭവപ്പെടുമ്പോൾ ഇരുട്ടിനോട് പൊരുത്തപ്പെടാൻ എടുക്കുന്ന സമയം നോക്കുകയാണെങ്കിൽ റോഡ് സെല്ലുകൾ ഏകദേശം 30 മിനിറ്റ് എടുക്കുകയും കോൺ സെല്ലുകൾ 10 മിനിറ്റ് എടുക്കുകയും ചെയ്യുന്നു എന്നാൽ വെളിച്ചമുള്ള അവസ്ഥയിൽ രണ്ട് സെല്ലുകളും ഏകദേശം ഒരു മിനിറ്റാണ് പൊരുത്തപ്പെടാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ വീണ്ടും റോഡ് സെല്ലുകളുടെ ഏറ്റവും അനുകൂലമായ പ്രവർത്തനം ഇരുട്ടിലാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ കോൺ സെല്ലുകളുടെ ഏറ്റവും നല്ല പ്രവർത്തനം വളരെ വെളിച്ചമുള്ള അവസ്ഥയിലാണ് റെറ്റിനയിലെ സ്ഥാനത്തിൻറെ അടിസ്ഥാനത്തിൽ റോഡ് സെല്ലുകൾ ഫോവിയയ്ക്ക് തൊട്ട് പുറത്തായി ഇടതിങ്ങി കിടക്കുന്നവയാണ് എന്നാൽ കോൺ സെല്ലുകൾ റെറ്റിനയ്ക്ക് ഉടനീളം സ്ഥിതി ചെയ്യുന്നു അവ ഫോവിയയ്ക്ക് അടുത്ത് വളരെ നിബിഢമായി കാണപ്പെടുന്നു നിങ്ങൾ വീഡിയോയിൽ കണ്ട ബൈപോളർ ന്യൂറോൺസിലേക്കുള്ള ന്യൂറൽ കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ റോഡ് സെല്ലുകൾ അവിടെ പൂൾഡ് കണക്ടഡ് ഫോം ഘടനയിലാണുള്ളത് എന്നാൽ കോൺ സെല്ലുകൾ വൺ ടു വൺ കണക്ടഡ് രീതിയിലാണ് ബന്ധിച്ചിരിക്കുന്നത് ഇപ്പോൾ വിഷ്വൽ മെക്കാനിസത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി നമ്മുടെ വിസിബിൾ സ്പെക്ട്രം പരിമിതപെട്ടതാണെന്നത് മുഴുവൻ വിസ്തൃതിയിൽ പ്രകാശത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല അതുപോലെ പരിമിതിയുള്ളതാണ് ഓഡിറ്ററി മെക്കാനിസവും ഈ വീഡിയോയിലേക്ക് നോക്കുക ഓഡിറ്ററി മെക്കാനിസം മനസ്സിലാക്കുന്നതിനുവേണ്ടി നമ്മൾക്ക് ഈ വീഡിയോ കാണാം ഈ കൊച്ചു കുട്ടി കിളി ചിലയ്ക്കുന്ന ശബ്ദത്തിൽ വളരെ ആകൃഷ്ടനാണ് അവൻ പതുക്കെ കിളിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് അവൻ ഈ ശബ്ദം കേൾക്കുന്നത് അവൻറെ പിന ശ്രദ്ധിക്കുക അവൻറെ പിന കിളി പുറപ്പെടുവിച്ച ശബ്ദ ഊർജ്ജത്തെ ശേഖരിക്കുന്നു ഈ ശബ്ദം ഇയർ കനാലിലൂടെ കടന്ന് ടിംപാനിക്ക് മെമ്പ്രയിനിൽ ചെന്നടിക്കുന്നു ഇതാണ് അവൻറെ ഇയർ ഡ്രം ഇവിടെ ശബ്ദ ഊർജ്ജം മെക്കാനിക്കൽ ഊർജ്ജമായി രൂപാന്തരപ്പെടുന്നു ഇയർ ഡ്രമിൻറെ ഓസിലേഷൻ മലിയസ് ഇൻകസ് കൂടാതെ സ്റ്റെയ്പീസ് എന്നിവയെ ചലിപ്പിക്കുന്നു ഊർജ്ജം പ്രവഹിക്കുന്നതിൻറെ കൂടെ ഈ അസ്ഥികൾ ശബ്ദം വികസിപ്പിക്കുകയും ചെയ്യുന്നു മിഡിൽ ഇയറിലെ സ്റ്റേപീസിൻറെ ഓസിലേഷൻ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് ഓവൽ വിൻഡോ അമർത്തുകയും വൈബ്രേഷൻ കോക്ലിയയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി കോക്ലിയയിൽ നിന്നും തരംഗം ഇവിടെയെത്തുന്നു ഓർഗൻ ഓഫ് കോർട്ടിയിൽ കുറേ രോമ കോശങ്ങളുണ്ട് അവ റിസപ്പ്റ്ററുകളായി പ്രവർത്തിക്കുന്നു തരംഗങ്ങളിലെ മർദ്ദം ഈ രോമ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു അത് തുടർന്ന് റിസപ്പ്റ്റർ ശേഷി ഉൽപ്പാദിപ്പിക്കുന്നു ഈ ന്യൂറൽ ഫയറിങ് തലച്ചോറിലേക്ക് ഓഡിറ്ററി പാതയിലൂടെ സഞ്ചരിക്കുകയും കുട്ടിക്ക് താൻ കിളിയുടെ ഇമ്പമാർന്ന ശബ്ദം കേൾക്കുകയാണെന്ന് ഗ്രഹിക്കാനാവുന്നു ഈ കുട്ടി എങ്ങനെയാണ് കിളി ചിലയ്ക്കുന്ന ശബ്ദം കേട്ടതെന്ന് കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് മെക്കാനിസം ഓഫ് ഓൾഫാക്ഷൻ എന്നതിലേക്ക് കടക്കാം ഈ കുട്ടി കിളിയെ പിന്തുടർന്ന് കഴിഞ്ഞ് പാർക്കിൻറെ കോണിലുള്ള പൂവിനെ നോക്കാൻ പോകുന്നു നമ്മൾക്ക് ഓൾഫാക്ടറി മെക്കാനിസം മനസ്സിലാക്കുന്നതിനുവേണ്ടി ഈ വീഡിയോയിലേക്ക് നോക്കാം ഈ കൊച്ചു കുട്ടിക്ക് റോസാ പൂവുകൾ വളരെയധികം ഇഷ്ടമാണ് അവൻ പൂന്തോട്ടത്തിൽ പോവുകയും ഈ പൂവുകൾ മണത്തു നോക്കുകയും ചെയ്യുന്നു അവൻ എങ്ങനെയാണ് റോസാപ്പൂവിൻറെ ഗന്ധം തിരിച്ചറിയുന്നത് നിങ്ങളിവിടെ കാണുന്നതുപോലെ ഈ കുട്ടി വളരെ ശക്തമായി വായു ഉള്ളിലേക്ക് എടുക്കുന്നു ഇത് അവൻറെ മൂക്കിൽ ഒബിപി പുറപ്പെടുവിക്കുന്നു ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിലുള്ള റിസപ്പ്റ്ററുകൾ ഒരു പ്രത്യേക ഗന്ധം തിരിച്ചറിയാൻ കഴിവുള്ളവയാണ് അങ്ങനെ ഈ പ്രത്യേക ഗന്ധം അവൻറെ ഓൾഫാക്ടറി ബൾബിൽ എത്തുന്നു നിങ്ങൾ ഓൾഫാക്ടറി ബൾബ് ഓൾഫാക്ടറി നെർവ് മൈട്രൽ സെൽസ് എന്നിവ കാണുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നീല പച്ച ചുവപ്പ് നിറങ്ങളിലുള്ള ഓൾഫാക്ടറി റിസപ്പ്റ്റർ ന്യൂറോൺസിനെ കാണാനാകും നിങ്ങൾക്ക് ഒബിപി പുറപ്പെടുവിക്കുന്നതും ഓൾഫാക്ടറി റിസപ്പ്റ്റർ ന്യൂറോൺസിൽ ഗന്ധസിഗ്നലിൻറെ പ്രവാഹവും കാണാനാകും ഈ ഗന്ധസിഗ്നലുകളെ ഓൾഫാക്ടറി ന്യൂറോൺസിൽ നിന്നും മൈട്രൽ സെൽസിലേക്ക് അയക്കുന്നു ഒടുവിൽ ഓൾഫാക്ടറി ട്രാക്ക് തലച്ചോറിലേക്ക് സന്ദേശം കൊണ്ടുചെന്നെത്തിക്കുന്നു ഇങ്ങനെയാണ് ഈ കൊച്ച് ആൺകുട്ടിക്ക് റോസാപ്പുവിൻറെ ഗന്ധം ലഭിക്കുന്നത് ഇപ്പോൾ പൂവിൻറെ ഗന്ധം ആസ്വദിച്ചു കഴിഞ്ഞ് കുട്ടിക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു അവൻ ചോക്കലേറ്റ് കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു മെക്കാനിസം ഓഫ് ടേസ്റ്റ് വിശദമാക്കുന്ന ഈ വീഡിയോയിലേക്ക് നോക്കാം ഈ കൊച്ചു കുട്ടി ഒരു ചോക്ലേറ്റ് ആസ്വദിച്ചു കഴിക്കുകയാണ് അവന് അതിൻറെ രുചി എങ്ങനെയാണു ലഭിക്കുന്നത് അവൻറെ നാക്കിലേക്ക് നോക്കുക നാവിൻറെ അഗ്രഭാഗം മധുരം ഉപ്പുരസം എന്നിവയോട് പെട്ടെന്ന് പ്രതികരിക്കുന്നു വശങ്ങൾ പുളിരസത്തോടും പുറകുവശം കയ്യ്പ്പുരസത്തോടും പ്രതികരിക്കുന്നു നിങ്ങൾക്ക് ചെറിയ മുഴകൾ കാണാനാകും അവയിൽ രസമുകുളങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ മുഴകളെ പപ്പില്ല എന്നു വിളിക്കുന്നു നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് ബഡ് കാണാനാകും ചോക്ലേറ്റിലെ രാസപദാർത്ഥങ്ങൾ ഉമിനീരിൽ അലിയുന്നു പിന്നീട് അവ താഴേക്ക് പപ്പില്ലയുടെ ഇടയിലേക്ക് പോകുന്നു ഈ രാസപ്രവർത്തനം അടുത്തുള്ള ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുകയും ഈ ഇംപൾസുകൾ ഈ കുട്ടിയുടെ തലച്ചോറിൻറെ പരയിറ്റൽ ലോബിലേക്കും ലിംബിക് സിസ്റ്റത്തിലേക്കും സഞ്ചരിക്കുന്നു ഇങ്ങനെയാണ് അവന് ചോക്ലേറ്റിൻറെ രുചി മനസ്സിലാകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ട എല്ലാ വീഡിയോയും ഒന്നിച്ചുചേർത്താൽ നിങ്ങൾ വിഷ്വൽ മെക്കാനിസത്തെകുറിച്ചുള്ള വീഡിയോ കണ്ടു ഓഡിറ്ററി മെക്കാനിസത്തെകുറിച്ചുള്ള വീഡിയോ കണ്ടു ഓൾഫാക്ടറി മെക്കാനിസത്തെകുറിച്ചുള്ള വീഡിയോ ഒടുവിലായി ടേസ്റ്റ് മെക്കാനിസത്തെക്കുറിച്ചും കണ്ടു നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടതെല്ലാം കൂട്ടിച്ചേർത്തു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ ബോധ്യമാകും ഇങ്ങനെയാണു നമ്മൾ ലോകത്തെകുറിച്ച് മനസ്സിലാക്കുന്നതെന്ന് അപ്പോൾ ഇതുവരെ നമ്മൾ അഞ്ച് അടിസ്ഥാനപരമായ സെൻസ് മോഡാലിറ്റീസിനെപറ്റി ചർച്ച ചെയ്തിരിക്കുന്നു വിഷ്വൽ ഓഡിറ്ററി സിസ്റ്റമുകൾ എക്സ്റ്റേറോസെപ്റ്റീവ് സിസ്റ്റംസ് ആണ് അതിനാൽ അവ ബാഹ്യമായ സ്റ്റിമുലൈയോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നു എന്നാൽ സൊമാറ്റോസെൻസറി സിസ്റ്റത്തിനും എക്സ്റ്റേറോസെപ്റ്റീവ് ഫംഗ്ഷൻ നിർവഹിക്കാനുണ്ട് അപ്പോൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൂടാതെ നമ്മൾക്ക് രണ്ട് പ്രധാന സെൻസേഷനുകൾ കൂടിയുണ്ട് ഒന്ന് കൈനസ്തെസിസ് സെൻസസ് മറ്റൊന്ന് വെസ്റ്റിബുലാർ സെൻസസ് ഇവ രണ്ടും ഈ ലോകത്ത് ജീവിക്കുന്നതിനു വേണ്ടി നമ്മെ വളരെയധികം സഹായിക്കുന്നു ഇപ്പോൾ കൈനസ്തെസിസ് എന്നാൽ ഏതെങ്കിലുമൊരു ചലനത്തിനു വേണ്ടി ശരീരഭാഗങ്ങൾ അനക്കുന്നതിൻറെ വികാരമാണ് ഉദാഹരണത്തിനായി ഒരു സന്ദർഭം സങ്കൽപ്പിക്കുക നിങ്ങൾ യാത്ര ചെയ്യുകയാണ് നിങ്ങൾ നടക്കുകയാണ് നിങ്ങൾ ഓടുകയാണ് ഇപ്പോൾ അടിസ്ഥാനപരമായും എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് ഒരു ബോധമുണ്ട് അവ എങ്ങനെ നീങ്ങും കൂടാതെ അവ നിങ്ങളുടെ ചലനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കണം എന്നതിനെക്കുറിച്ച് എപ്പോഴും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായ പ്രകടനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു അത് നടത്തമാണെങ്കിലും ഓടുന്നതാണെങ്കിലും അതല്ല മറ്റെന്തായാലും അപ്പോൾ ഇതേ കൈനസ്തെസിസ് സെൻസസ്സാണ് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ എങ്ങനെയാണ് ചലിക്കുന്നതെന്ന് നിങ്ങൾക്ക് പൂർണമായുള്ള ഫീഡ്ബാക്ക് നൽകുന്നത് ഇത് നിങ്ങളുടെ പ്രവർത്തി അതീവശ്രദ്ധയോടെ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു നമ്മൾ ഇപ്പോൾ സൂചിപ്പിക്കാൻ പോകുന്ന മറ്റൊരു സെൻസാണ് വെസ്റ്റിബുലാർ സെൻസസ് ഈ ഇന്ദ്രിയങ്ങൾക്കാണ് നമ്മെ സ്പേഷ്യൽ ഓറിയൻറേഷൻ തിരിച്ചറിയിക്കാനുള്ള ഉത്തരവാദിത്തം സ്പേഷ്യൽ ഓറിയൻറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സ്ഥലത്ത് നമ്മുടെ ശരീരത്തിൻറെ സ്ഥിതിയെപ്പറ്റി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നതാണ് ഒരുദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ചാടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലാകും ആ സ്ഥിതിയിൽ നിങ്ങളുടെ ശരീരത്തിൻറെ സ്ഥാനം ആപേക്ഷികമാണെന്ന് അപ്പോൾ ചലിക്കുമ്പോഴുള്ള സെൻസ് ഓഫ് ബാലൻസ് എല്ലാത്തരം ചലനങ്ങളുടെയും അടിസ്ഥാനപരമായും വെസ്റ്റിബുലാർ സെൻസസ്സിനെ ആശ്രയിച്ചാണുള്ളത് ഇപ്പോൾ നമ്മൾക്ക് ബീജിങ് ഒളിമ്പിക്സിൽ നിന്നുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണാം ഇവയൊക്കെ മനുഷ്യർക്ക് പ്രകടിപ്പിക്കാൻ ആകുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ചലനങ്ങളാണ് ഇവയ്ക്കെല്ലാം അങ്ങേയറ്റം ഡിഗ്രി ഓഫ് കോഡിനേഷൻ ആവശ്യമാണ് നിങ്ങൾ കണ്ട വീഡിയോയിൽ ഒരു ജിംനാസ്റ്റ് വസ്തുവിൽ നോക്കാതെ ചലിക്കുകയാണ് ശരീരഭാരം താങ്ങുന്നത് കയ്യിലാണ് മറ്റൊന്നിൽ നിങ്ങൾ കണ്ടു കായികാഭ്യാസി ഐസിൻറെ പ്രതലത്തിൽ പ്രകടനം നടത്തുന്നത് അതിൽ ശരീരഭാരം ആദ്യം ഒരു കാലിൽ പിന്നെ രണ്ടാമത്തെ കാലിൽ പിന്നീട് ഇരുകാലുകളിൽ കൊടുത്തിരിക്കുന്നു എന്നാലും വളരെ കൃത്യമായി ഒരേസമയത്ത് ചലനങ്ങൾ നടത്തുന്നു കൂടാതെ പിന്നീട് ശരീരം വളരെ വേഗത്തിൽ ആടുമ്പോഴും ഒരേ പോലെയാണ് ചലിക്കുന്നത് അപ്പോൾ ഈ പ്രക്രിയകൾക്കായി നിങ്ങൾക്കു ശക്തമായ വെസ്റ്റിബുലാർ മെക്കാനിസം ആവശ്യമായി വരുന്നു അപ്പോൾ ഇതോടെ ഇന്ന് ആദ്യത്തെ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഇവിടെ നമ്മൾ പ്രത്യേകമായും ശ്രദ്ധപതിപ്പിച്ചിരിക്കുന്നത് സെൻസറി മെക്കാനിസത്തെക്കുറിച്ചാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ വിഷ്വൽ മെക്കാനിസസത്തെക്കുറിച്ചു സംസാരിച്ചു ഓഡിറ്ററി മെക്കാനിസത്തെക്കുറിച്ചു സംസാരിച്ചു ഓൾഫാക്ടറി മെക്കാനിസത്തെക്കുറിച്ചു പറഞ്ഞു അതുകൂടാതെ ടേസ്റ്റ് മെക്കാനിസത്തെക്കുറിച്ചും ചർച്ചചെയ്തു ഈ നാല് മെക്കാനിസങ്ങളും കൂടാതെ കൈനസ്തെറ്റിക്ക് വെസ്റ്റിബുലാർ സെൻസസ് എന്നിവയും നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് തലച്ചോറിലേക്ക് ഇൻപുട്ട് കടന്നുവരുന്നത് ഇവ ട്രാൻസ്ഡക്ഷൻ പ്രക്രിയ പിന്തുടർന്നു വന്നാൽ വിവരങ്ങൾ തലച്ചോറിലേക്ക് കടക്കുകയും പിന്നീട് നമ്മുടെ തലച്ചോറ് അവയുടെ ഉചിതമായ അർത്ഥം നിർണ്ണയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കിയതിന് ഉചിതമായ അർത്ഥം നൽകാൻ നമ്മൾക്ക് ആവുകയാണെങ്കിൽ അതിനെ പെർസെപ്ഷൻ എന്നുവിളിക്കുന്നു സൂചനാ വാക്യങ്ങൾ പെർസെപ്ഷൻ ട്രാൻസ്ഡക്ഷൻ വിഷൻ ഓഡിഷൻ ടേസ്റ്റ് സെൻസറി മെക്കാനിസംസ്